Cloud Computing ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് Prof Soumya Kanti Ghosh Department of Computer Science and Engineering Indian Institute of Technology Kharagpur Lecture - 07 പ്രഭാഷണം- 07 Virtualization വെർച്വലൈസേഷൻ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ട് നിങ്ങൾ മറ്റേ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിംഗ് ഘടകങ്ങൾ തുടങ്ങിയവ അതിനാൽ ഞാൻ ഒരു സബ്സ്ക്രൈബർ നിരീക്ഷിക്കുന്നത് പോലെ അത്തരത്തിലുള്ളവയാണ് മൂല്യവർദ്ധിത സേവനങ്ങൾ അതിനാൽ ദാതാക്കൾക്ക് സൈദ്ധാന്തികമായി വലിയ വിർച്വൽ മെഷീനുകൾ പോലെ വളരെ താഴ്ന്ന കാര്യങ്ങളുള്ള VM നമുക്ക് മൂന്ന് തരം വെർച്വൽ മെഷീനുകളുണ്ട് ഇപ്പോൾ എന്റെ ബാക്ക് ബോൺ ഉണ്ട് ദാതാക്കൾ മറ്റ് ഉപയോക്താക്കൾക്കായി VM7 വഴി VMn നിലനിർത്തുന്നു അതിനാൽ അത് ഒരു മാതൃകയാക്കാം അത് ചെയ്യുന്നത് തുടരുക ഇവ സാധാരണ അത്തരത്തിലാണ് ചെയ്യുന്നത് അതിനാൽ IaaS ഘടക സ്റ്റാക്കും ഉയർന്ന പാളി ഉൾക്കൊള്ളുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ മധ്യത്തിൽ ക്ലൌഡ് നീക്കുകയും താഴത്തെ പാളികളിലെ നിയന്ത്രണ തരം ദാതാവിന്റെ ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു

അതിനാൽ IaaS ൽ ക്ലൌഡ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രത്യേക കാര്യത്തിന്മേൽ എനിക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് IaaS ഘടകങ്ങളുടെ ശേഖരണവും മറ്റ് കാര്യങ്ങളും ഒന്നോ അതിലധികമോ വിർച്വൽ മെഷീനുകൾ എനിക്ക് ആശയവിനിമയം തുടരാൻ കഴിയും അതിനാൽ ഒരു സാധാരണ ആർക്കിടെക്ചർ ദാതാവ് ഇല്ലാതിരിക്കുമ്പോഴോ പോകാത്ത സംഭരണം അതിനാൽ ഘടകങ്ങളുടെ 3 ലെവൽ താഴേക്ക് കൈമാറുന്നു IaaS ക്ലൌഡ് ആർക്കിടെക്ചർ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ വ്യത്യസ്ത കാര്യങ്ങളുടെ പ്രവർത്തനം നോക്കുക അതിനാൽ മുകളിൽ ക്ലൌഡ് മാനേജർ മുതലായവയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന വിഭവങ്ങൾ നിയന്ത്രിക്കുന്നു സബ്സ്ക്രൈബറിനെ തലത്തിൽ കൈകാര്യം ചെയ്യുന്നു ഡാറ്റ ഒബ്ജക്റ്റ് സ്റ്റോറേജ് ആണ് അതിനാൽ ഒരു പ്രത്യേക ക്ലൌഡിനുള്ളതാണ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു അതിനാൽ മധ്യനിരയിലുള്ള ക്ലസ്റ്റർ മാനേജരെ പറയുന്നു അതുപോലെ അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല വിഭവ ലഭ്യത നിർണ്ണയിക്കാൻ ക്ലസ്റ്ററിലെ കമ്പ്യൂട്ടർ മാനേജരോട് ആയിരിക്കുമ്പോൾ അഭാവം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുന്നു അതിനാൽ അതിലേക്ക് ഒരു പ്രാദേശിക സംഭരണമുണ്ട് അതിനാൽ ഈ PLS വിർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിനാൽ ക്ലൌഡ് മാനേജരുടെ ഉപയോഗിക്കുന്നു

അതിനാൽ ഹാർഡ്വെയർ എനിക്ക് ഉണ്ടായിരിക്കാം അതിനാൽ ഈ വിർച്വലൈസേഷനിൽ ചെയ്തു അതിനാൽ ലാപ്ടോപ്പിൽ കാര്യത്തിൽ അവ പരസ്പരം പൂർണ്ണമായും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പ്രവർത്തനക്ഷമമാകുന്ന കാര്യങ്ങളുടെ മറ്റൊരു പ്രധാന ആകർഷണം വെർച്വൽ മെഷീൻ മോണിറ്റർ ഉത്തരവാദിത്തമുണ്ട് അതിനാൽ ഗസ്റ്റ് വിഭവങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം അതിനാൽ നിങ്ങൾ എനിക്ക് 4 GB മെഷീൻ 30 GB അല്ലെങ്കിൽ 60 GB ഹാർഡ് ഡിസ്ക് ഉള്ളപ്പോൾ പരിശോധിക്കേണ്ട ഘടകങ്ങൾ ഇവയാണ് ഈ സ്വഭാവസവിശേഷതകൾ സംഭവിക്കാൻ അനുവദിക്കുന്നതിന് CPU നിർദ്ദേശങ്ങളുടെ ആവശ്യകതയ്ക്ക് പോപെക്കും പട്ടികകൾ മാറ്റുക അല്ലെങ്കിൽ നിലവിലെ പ്രത്യേകാവകാശ തലത്തിൽ വിവര സൂചന നിരീക്ഷിക്കുക നിങ്ങളുടെ അടിസ്ഥാന ആർക്കിടെക്ചറൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും IaaS തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മുൻ ക്ലാസ് തിരിച്ചറിയാൻ കഴിയുമെന്നും അവർ അവരുടെ പ്രവർത്തനത്തിൽ തെളിയിച്ചിട്ടുണ്ട് അതിനാൽ VMകളും ഈ വെർച്വൽ മെഷീൻ മോണിറ്ററുകളിലൂടെയുള്ള ഉണ്ടോ എന്നത് നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വിർച്വലൈസേഷനിലേക്കുള്ള സാധാരണ സമീപനങ്ങളെ നോക്കാം

അതിനാൽ ഈ വിർച്വലൈസേഷന്റെ എന്തുചെയ്യുന്നു അതിനാൽ പൂർണ്ണ വിർച്വലൈസേഷൻ ഇവ പൂർണ്ണ വിർച്വലൈസേഷൻ പ്രകടനത്തെ ബാധിക്കുന്നു പരമ്പരാഗത x86 ആർക്കിടെക്ചറിൽ മറ്റ് കാര്യങ്ങളും പ്രവർത്തിക്കണം അതിനാൽ നമ്മൾ അതിന് പണം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ആ കാര്യത്തിന് ഒരു പ്രകടന വിലയാണ് പാരാ വിർച്വലൈസേഷന്റെ ഉണ്ട് പ്രകടനം വർദ്ധിക്കുകയും ഇത് വളരെ ജനപ്രിയമാവുകയും ചെയ്യുന്നു അതിനാൽ പാരാ വിർച്വലൈസേഷന്റെ OS തലത്തിൽ ശ്രദ്ധിക്കുന്നു മൂന്നാമത്തേത് ഒരു റിംഗ് മുതലായവ പ്രവർത്തിക്കുമ്പോൾ അത് ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നെറ്റ്വർക്ക് ലെവൽ വെർച്വലൈസേഷന്റെ ചില വശങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ഹാർഡ്വെയറായി അനുകരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു നെറ്റ്വർക്ക് നില എനിക്ക് ഇതുപോലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് അതിനാൽ ഞാൻ ഒരു വെർച്വൽ നെറ്റ്വർക്കിനെ ഉണ്ടായിരിക്കണം ഇത് പെട്ടെന്നുതന്നെ നിലവിൽ വന്നതല്ല ഇതിനകം തന്നെ ധാരാളം കാര്യങ്ങൾ ഉണ്ട് അതാണ് ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇവ ഇതിനകം തന്നെ വർഷങ്ങളായി നിലവിലുണ്ട് ഇത് അനുകരിക്കപ്പെടുന്നു ഇവ നോക്കിയാൽ ബിസിനസ് മോഡൽ ആർക്കിടെക്ചർ ലക്ഷ്യം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരം വശങ്ങളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇത് ശരിയാണ് അതിനാൽ എനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ മാത്രമല്ല ഉള്ളത് അതിനാൽ ഈ സെർവറുകൾ സ്ഥാപിക്കാൻ കഴിയും അതിനാൽ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ നമുക്ക് ചർച്ച തുടരാം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം